കോഴ്സിന്റെ ആർ മൊഡ്യൂളിലെ 9 ലെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം എഞ്ചിനീയർമാർക്കുള്ള ഡാറ്റാ സയൻസ് ഇവിടെ ഞങ്ങൾ ആർ ഈ പ്രഭാഷണത്തിൽ സംസാരിയ്ക്കാൻ പോകുന്നത് ഇഫ് എൽസ് ഇഫ് കൺസ്റ്റ്ക്ടസ് ഫോർ ലൂപ്പ് നെസ്റ്റഡ്ഡ് ഫോർ ലൂപ്പ് ഫോർ ലൂപ്പ് വിത്ത് ഇഫ് ബ്രേക്ക് വൈൽ ലൂപ്പ് എന്നിവ ആണ് നിയന്ത്രണ ഘടനകളെ 2 വിഭാഗങ്ങളായി തിരിക്കാം ആദ്യത്തേത് ചില നിബന്ധനകൾ തൃപ്തിപ്പെടുമ്പോൾ മാത്രമേ നിങ്ങൾ ചില കമാൻഡുകൾ നടപ്പിലാക്കേണ്ടതുള്ളൂ കൂടാതെ ഈ നിയന്ത്രണ ഘടനയുടെ ഉദാഹരണം ഇഫ് എൽസ് ഇഫ് രണ്ടാമത്തേത് ചില കമാൻഡുകൾ ആവർത്തിച്ച് നടപ്പിലാക്കുന്നു കൂടാതെ ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾക്കായുള്ള ആവർത്തന ഉദാഹരണങ്ങൾ ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് ആദ്യം നോക്കൂ ഇഫ് കൺസ്റ്റ്ക്ടസ് എന്താണെന്നു നോക്കാം ഇഫ് ഒരു കണ്ടിഷൻ പരിശോദിച്ചു അത് ശരിയാണെങ്കിൽ ഇഫ് ബ്ലോക്കിനുള്ളിലെ സ്റ്റെമെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും അടുത്ത ലെവൽ ഇഫ് എൽസ് വ്യവസ്ഥ തൃപ്തികരമാണെങ്കിൽ ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചില ഇതര പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് അതിനാൽ ഇഫ് എൽസ് ഇതുപോലെ കാണപ്പെടുന്നുവെങ്കിൽ വ്യവസ്ഥ തൃപ്തികരമാണെങ്കിൽ ഈ പ്രസ്താവനകൾ നടത്തുക അല്ലാത്തപക്ഷം ഈ ഇതര പ്രസ്താവനകൾ നടത്തുന്നു അടുത്ത ലെവൽ മറ്റെന്തെങ്കിലും നിർമ്മിക്കുകയാണെങ്കിൽ അതിനാൽ ഒരു വ്യവസ്ഥ തൃപ്തികരമാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഉണ്ടാകും ഈ പ്രസ്താവന നടപ്പിലാക്കുക അല്ലാത്തപക്ഷം ഈ വ്യവസ്ഥ തൃപ്തികരമാണെങ്കിൽ മറ്റൊരു വ്യവസ്ഥ പരിശോധിച്ചാൽ ഈ ഇതര പ്രസ്താവനകൾ നടപ്പിലാക്കുക ഇരുവരും തൃപ്തരല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുക അതിനാൽ വാക്യഘടന ഇപ്രകാരമാണ് ഈ ഉദാഹരണം ഇവിടെ പരിഗണിച്ചാൽ ഇത് ചിത്രീകരിക്കാൻ അതിനാൽ ഞങ്ങൾ 6 മുതൽ x വരെ മൂല്യം നൽകി x 7 ൽ കൂടുതലാണോയെന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു കാരണം നിങ്ങളുടെ മൂല്യം 6 ആണ് ഞങ്ങൾ ഒരു വ്യവസ്ഥ 6 പരിശോധിക്കുന്നത് 7 ൽ കൂടുതലാണ് ഇത് തെറ്റാണ് ഈ പ്രസ്താവന നടപ്പിലാക്കില്ല അടുത്ത അവസ്ഥ x 8 ൽ കൂടുതലാണോ എന്ന് ഇപ്പോൾ ഇത് പരിശോധിക്കും 6 എണ്ണം 8 ൽ കൂടുതലല്ലാത്തതിനാൽ ഈ അവസ്ഥ വീണ്ടും പരാജയപ്പെടുന്നു ഈ ഭാഗം നടപ്പിലാക്കില്ല ഈ 2 ഭാഗങ്ങൾ നടപ്പിലാക്കാത്തതിനാൽ അത് മറ്റൊന്നിലേക്ക് നീങ്ങും തുടർന്ന് അത് x ന്റെ മൂല്യം 3 ആയി വർദ്ധിപ്പിക്കും അതിനർത്ഥം നിങ്ങൾക്ക് ഇപ്പോൾ x 6 ആയി x ഉണ്ട് 6 3 9 ഉം 9 ന്റെ മൂല്യം x ലേക്ക് നിയോഗിക്കുകയും ഈ കോഡ് ആർ ആർ ൽ നടപ്പിലാക്കുകയും ചെയ്യുന്നു output ട്ട് പുട്ട് 9 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്തതായി ആദ്യം ഒരു സീക്വൻസ് ഫംഗ്ഷൻ എന്താണെന്ന് മനസിലാക്കേണ്ട പ്രവർത്തനത്തിനായി ഞങ്ങൾ നിർമ്മാണത്തിലേക്ക് നീങ്ങുന്നു അതിനാൽ ഒരു സീക്വൻസ് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം സീക്വൻസ് ഫോർ ലൂപ്പിന്റെ ഘടകങ്ങളിലൊന്നാണ് അതിനാലാണ് ഞങ്ങൾ ഇപ്പോൾ സീക്വൻസ് പ്രവർത്തനം നോക്കുന്നതിന്റെ കാരണം സീക്വൻസ് ഫംഗ്ഷൻ വാക്യഘടന ഇപ്രകാരമാണ് സീക്വൻസ് ഫംഗ്ഷനിൽ ആരംഭ സംഖ്യയിൽ നിന്ന് സീക്വൻസ് ആരംഭിക്കേണ്ട അവസാന നമ്പറിലേക്ക് ആരംഭിക്കേണ്ടതുണ്ട് ബൈ അല്ലെങ്കിൽ നീളം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് സീക്വൻസ് നിർവചിക്കാൻ കഴിയും നിങ്ങൾ ഈ വാദം നൽകുമ്പോൾ സീക്വൻസ് എന്ത് വർദ്ധനവ് അല്ലെങ്കിൽ ഉത്തരവ് സൃഷ്ടിക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ ആർഗ്യുമെൻറ് ദൈർഘ്യം നൽകുമ്പോൾ അതിനാൽ ഇത് ചെയ്യുന്നത് ആരംഭ നമ്പറിൽ നിന്ന് അവസാനിക്കുന്ന നമ്പറിലേക്ക് ആവശ്യമായ ഘടകങ്ങളുടെ എണ്ണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അവസാന നമ്പറിലേക്ക് സൃഷ്ടിക്കും 1 മുതൽ 10 വരെ ഒരു സീക്വൻസ് സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും തുടർന്ന് എനിക്ക് 3 വീതി ആവശ്യമാണെന്നും നമുക്ക് ഇപ്പോൾ അനുമാനിക്കാം അതിനാൽ ഞാൻ കടന്നുപോകാൻ ആഗ്രഹിക്കുന്ന വാദം 3 ഇത് 3 ഉം പിന്നീട് 4 4 ഉം കൊണ്ട് വേർതിരിച്ച ഒന്ന് സൃഷ്ടിക്കും അത് വീണ്ടും 3 മൂല്യങ്ങളും പിന്നീട് 7 ഉം ഉപേക്ഷിക്കുന്നു തുടർന്ന് ഇത് മറ്റൊരു 3 മൂല്യങ്ങളും തുടർന്ന് എ 0 ഉം ഉപേക്ഷിക്കുന്നു പകരം എനിക്ക് ചെയ്യാൻ കഴിയും നീളം വ്യക്തമാക്കുന്നതിലൂടെയും അതിനാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുന്ന രീതി ₁ ഇപ്രകാരമാണ് 4 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന 1 മുതൽ 10 വരെ ഒരു സീക്വൻസ് സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് ഒരേ കാര്യം സൃഷ്ടിക്കും അതിനാൽ അത് ഒന്നിൽ നിന്ന് എടുത്ത് 1 ൽ നിന്ന് ആരംഭിച്ച് 4 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന 10 വരെ പോകും ഇപ്പോൾ എനിക്ക് 1 മുതൽ 10 വരെ ഒരു സീക്വൻസ് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് 4 വീതിയാണ് output ട്ട് പുട്ട് എങ്ങനെ കാണപ്പെടുന്നു എന്നതാണ് ഫോർ ലൂപ്പ് ആയി ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം അത് വെക്റ്റർ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഒരു ഇറ്റർ ആകാം അത് ഒരു ഘടകമാണ് സീക്വൻസും നടപ്പിലാക്കാൻ ആവശ്യമായ പ്രസ്താവനകളും അതിനാൽ ഫോർ ലൂപ്പ് ഘടന നിങ്ങൾ കാണുകയാണെങ്കിൽ ഞങ്ങൾ കണ്ടതുപോലെ ഒരു ശ്രേണിയിൽ ഇറ്റർ സീക്വൻസിലെ ഒരു ഘടകമാണ് സീക്വൻസ് ഒരു ലിസ്റ്റ് ആർ വെക്റ്റർ ഈ ശ്രേണിയിലെ ഓരോ ഘടകത്തിനും ഈ പ്രസ്താവനകൾ നടപ്പിലാക്കുക എന്നതാണ് ലൂപ്പ് നിർമ്മാണത്തിനായി ഇത് പറയുന്നത് അതിനാൽ ലൂപ്പുകൾക്കായുള്ള അടുത്ത ലെവൽ നെസ്റ്റഡ്ഡ് ഫോർ ലൂപ്പ് ആണ് നെസ്റ്റഡ്ഡ് ഫോർ ലൂപ്പ് നിങ്ങൾ പറയുമ്പോൾ അതിനർത്ഥം ലൂപ്പിനായി മറ്റൊന്നിനുള്ളിൽ സ്ഥിതിചെയ്യുന്ന ലൂപ്പ് നിർമ്മാണങ്ങൾക്കായി ഞങ്ങൾക്ക് ഒന്നോ അതിലധികമോ ഉണ്ടെന്നാണ് നെസ്റ്റഡ്ഡ് ഫോർ ലൂപ്പ് ഘടന ഇപ്രകാരമാണ് ഇവിടെ ലൂപ്പിനുള്ള ആന്തരികവും ലൂപ്പിനുള്ളതുമായ ഒരു ആന്തരികമാണ് സീക്വൻസിലെ ഓരോ ആവർത്തനത്തിനും പുറത്ത് ലൂപ്പിനായി പുറം വിളിക്കുന്നു 1 ഇത് ലൂപ്പിനായി എക്സിക്യൂട്ട് ചെയ്യും ഇത് ലൂപ്പ് 2 ലേക്ക് പോകും അവിടെ ഓരോ ആവർത്തനത്തിനും സീക്വൻസ് 2 ൽ ഈ പ്രവർത്തനങ്ങൾ നടത്തുകയും ലൂപ്പിനായി ഇത് ചിത്രീകരിക്കുന്നതിന് ഔട്ട്പുട്ട് തിരികെ നൽകുകയും ചെയ്യും ഞങ്ങൾക്ക് ഇവിടെ ഒരു ഉദാഹരണം ഉണ്ടാകും 5 ഉം 0 ഉം ആയിരിക്കുന്ന ഘടകങ്ങളുടെ എണ്ണം ഞാൻ സമാരംഭിക്കുന്നു എനിക്ക് ഒരു സീക്വൻസ് ഉണ്ട് അത് 1 മുതൽ ആരംഭിച്ച് 5 ന് 1 വീതിയിൽ അവസാനിക്കുന്നു ലൂപ്പിനായി ഞാൻ ചെയ്യുന്നത് ഞാൻ തുക ലൂപ്പിനായി ഇതിനുള്ളിലെ വേരിയബിൾ തുകയ്ക്ക് ഞാൻ വിലമതിക്കുന്നു ഒപ്പം ആവർത്തന മൂല്യമായ i അച്ചടിക്കുന്നു ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ലൂപ്പിലും തുകയിലും ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് അതിനാൽ നിങ്ങൾക്ക് n 5 ഉണ്ട് അത് മെമ്മറിയിൽ സൂക്ഷിക്കും അതിനാൽ ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയും 0 തുക 0 ആയി ആരംഭിക്കുകയും ചെയ്യുമ്പോൾ അത് ആദ്യമായി ലൂപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് സീക്വൻസിൽ നിന്ന് 1 ന്റെ മൂല്യം എടുക്കും എന്നിട്ട് നിങ്ങൾ ഇതിനകം 0 0 1 എന്നായി സംഗ്രഹിച്ചിരിക്കുന്നു ഇത് തുകയ്ക്ക് മൂല്യം 1 നൽകും ആദ്യ ആവർത്തനത്തിലോ ആദ്യ ആവർത്തനത്തിലോ തുകയുടെ മൂല്യം 1 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ടാമത്തെ ആവർത്തനത്തിൽ നിങ്ങൾക്ക് മൂല്യ തുക അടുത്ത ആവർത്തനത്തിലേക്ക് പോകും അതാണ് ഇപ്പോൾ എനിക്ക് മൂല്യം 2 അതിനാൽ നിങ്ങൾക്ക് ഇതിനകം തന്നെ തുക മൂല്യമുണ്ട് എനിക്ക് 2 1 2 3 ഉം രണ്ടാമത്തെ ആവർത്തനത്തിലെ വേരിയബിൾ തുകയിലേക്ക് 3 ന്റെ മൂല്യം നിയോഗിക്കപ്പെടുന്നു തുകയുടെ മൂല്യം ഇവിടെ 3 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും സീക്വൻസ് 5 വരെ പ്രവർത്തിക്കുന്നതിനാൽ 5 ആവർത്തനങ്ങളുടെ അവസാനത്തിൽ തുക 15 ആയിരിക്കും ആവശ്യമായ അവസ്ഥ തൃപ്തികരമാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ചിലപ്പോൾ പ്രവർത്തനം നിർത്തേണ്ടത് ആവശ്യമാണ് ലൂപ്പിനായി ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഇത് നേടാൻ കഴിയും അതിനാൽ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഞാൻ വേരിയബിൾ n ന് 100 വേരിയബിൾ മൂല്യം നൽകുന്നു ഞാൻ തുക 0 ആയി സമാരംഭിക്കുന്നു തുക 15 കവിയുമ്പോൾ ഇപ്പോൾ ലൂപ്പ് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അത് എങ്ങനെ ചെയ്യും അതിനാൽ ബ്രേക്ക് കൺസ്ട്രക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ലൂപ്പിനായി അതിനാൽ ലൂപ്പിനായി ഇവ ഓരോ ആവർത്തനത്തിനും ലഭ്യമായ പ്രസ്താവനകളാണ് ഞാൻ ഈ തുക ചേർക്കുകയും പിന്നീട് അതിന്റെ മൂല്യം നൽകുകയും തുകയിലേക്ക് നൽകുകയും ചെയ്യുന്നു ലൂപ്പ് വേരിയബിളും തുകയും അടങ്ങിയ വെക്റ്റർ ഞാൻ അച്ചടിക്കുന്നു തുക 15 ൽ കൂടുതലാണെങ്കിൽ ഞാൻ ഒരു അവസ്ഥ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇത് ലൂപ്പ് തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയാണ് അതിനാൽ ആവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പുതന്നെ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാം ലൂപ്പിൽ നിന്ന് പുറത്തുകടന്നു ഇപ്പോൾ ആദ്യ ആവർത്തനത്തിൽ ലൂപ്പ് വേരിയബിളിന് ഒരു മൂല്യം 1 ഉള്ളതിനാൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം കാരണം ഇത് 1 മുതൽ ആരംഭിക്കുന്ന ഒരു സീക്വൻസാണ് അവസാന മൂല്യം ഇവിടെ 100 ആണ് അതിനാൽ മുമ്പത്തെ ഉദാഹരണത്തിലും ഞങ്ങൾ ആദ്യമായി തുകയുടെ മൂല്യം 1 ആയി തുക 15 ൽ കൂടുതലാണെങ്കിൽ ഇത് വ്യവസ്ഥ പരിശോധിക്കുന്നു കാരണം തുക മൂല്യം 1 ആണ് ഇത് 15 ൽ കൂടുതലല്ല ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നടപ്പിലാക്കില്ല ആവർത്തന നമ്പർ 6 തുക മൂല്യം ഇതിനകം 15 ഉം ആവർത്തന മൂല്യം ഇപ്പോൾ 6 ഉം ആകുമ്പോൾ 5 ആവർത്തനങ്ങളിലേക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നടപ്പിലാക്കില്ല ഇപ്പോൾ ആവർത്തന മൂല്യം 6 ആണ് 15 6 21 ആയി മാറും കൂടാതെ 21 വേരിയബിൾ തുകയിലേക്ക് നിയോഗിക്കപ്പെടും തുക 15 ൽ കൂടുതലാണെങ്കിൽ ഈ വ്യവസ്ഥ പരിശോധിച്ചാൽ ഈ വ്യവസ്ഥ തൃപ്തികരമാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നടപ്പിലാക്കുന്നു ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നടപ്പിലാക്കിയുകഴിഞ്ഞാൽ പ്രോഗ്രാം അടുത്തതായി ലൂപ്പിൽ നിന്ന് വിട്ടുനിൽക്കുക ഞങ്ങൾ മറ്റൊരു നിർമ്മാണത്തിലേക്ക് നീങ്ങുന്നു അത് ലൂപ്പ് സമയത്ത് ഒരു നിർദ്ദിഷ്ട വ്യവസ്ഥ ലംഘിക്കപ്പെടുന്നതുവരെ പ്രസ്താവനകൾ നടപ്പിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്നു ബ്രേക്ക് കൺസ്ട്രക്റ്റ് ആണെങ്കിൽ ലൂപ്പിന് സമാനമായ ഒരു അനുബന്ധമായി നമുക്ക് ഇത് കാണാൻ കഴിയും സ്വാഭാവിക സംഖ്യകളുടെ ഒരു ശ്രേണി നമുക്ക് പരിഗണിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില അന്തിമ തുകയേക്കാൾ വലുതായ പ്രകൃതിദത്ത സംഖ്യ n കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ തുക 0 ഉം പ്രാരംഭ വേരിയബിളായ i 0 ഉം സമാരംഭിക്കുന്നുവെന്ന് ഞങ്ങൾ കണ്ട അതേ ഉദാഹരണം നിങ്ങൾ പരിഗണിക്കും അവസാന തുക 15 ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തുക അന്തിമ തുകയേക്കാൾ കുറവായിരിക്കുമ്പോൾ ഞാൻ കുറച്ച് സമയം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് I മൂല്യം 1 വർദ്ധിപ്പിക്കാനും പിന്നീട് i മൂല്യത്തിലേക്ക് വീണ്ടും നിയമിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു കൂടാതെ തുക അതിന്റെ മൂല്യം വർദ്ധിപ്പിക്കാനും പിന്നീട് ചുരുക്കത്തിൽ വീണ്ടും നൽകാനും ഞാൻ ആഗ്രഹിക്കുന്നു ഒടുവിൽ ആവർത്തന മൂല്യവും തുകയും അച്ചടിക്കുക ലൂപ്പ് വേരിയബിളിന് 4 മൂല്യം ലഭിക്കുന്നതുവരെ ഈ കമാൻഡുകൾ നടപ്പിലാക്കുന്നു ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് മനസിലാക്കാം ആദ്യമായി എനിക്ക് 0 വയസ്സ് തികയുമ്പോൾ ഇത് അവസ്ഥയുടെ ആകെത്തുക അന്തിമ തുകയേക്കാൾ കുറവാണെന്ന് പരിശോധിക്കും ഇത് ചെയ്യുന്നത് ശരിയാണ് ഇത് i 1 വർദ്ധിപ്പിക്കും എന്നതാണ് അതിനാൽ 0 1 എന്ന 1 എന്ന ഐ 1 നിങ്ങൾക്ക് ലൂപ്പ് വേരിയബിൾ 1 ആയി ലഭിക്കും തുക 0 TAG1 1 ആണ് അതിനാൽ അതിനാൽ ഒരു മൂല്യം 1 ലഭിക്കുന്ന തുക ഇപ്പോൾ ഈ പ്രസ്താവന ഈ ആദ്യ വരി അച്ചടിക്കുന്നു ഇപ്പോൾ അത് അടുത്ത ആവർത്തനത്തിലേക്ക് പോകും തുക അന്തിമ തുകയേക്കാൾ കുറവാണോ എന്ന് ഇപ്പോൾ ഇത് പരിശോധിക്കുന്നു തുക 1 ആണ് ഇത് അവസാന തുക 15 നേക്കാൾ കുറവാണ് അത് അടുത്ത ആവർത്തനത്തിനായി പോകും ഇത് മൂല്യം അപ് ഡേറ്റ് ചെയ്യും ലൂപ്പ് വേരിയബിളിന്റെയും സം വേരിയബിളിന്റെ മൂല്യത്തിന്റെയും അഞ്ചാമത്തെ ആവർത്തനത്തിൽ നിങ്ങൾക്ക് ഒരു തുക വേരിയബിൾ 15 ഉണ്ട് അത് 15 പക്ഷേ 15 ൽ കുറയാത്തത് ഈ പ്രസ്താവന തെറ്റാണ് അത് ലൂപ്പിൽ നിന്ന് പുറത്തുവരും അതിനാൽ ഈ പ്രഭാഷണത്തിൽ മറ്റെന്തെങ്കിലും നിർമ്മാതാക്കളുടെ കുടുംബത്തെ ആർ ൽ എങ്ങനെ കോഡ് ചെയ്യാമെന്നും ലൂപ്പുകൾക്കായി എങ്ങനെ കോഡ് ചെയ്യാമെന്നും ആർ ലൂപ്പുകൾ ചെയ്യുമ്പോഴും ഞങ്ങൾ കണ്ടു അടുത്ത പ്രഭാഷണത്തിൽ ആർ യിൽ അടിസ്ഥാന ഗ്രാഫിക്സ് പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താമെന്ന് ഞങ്ങൾ കാണാൻ പോകുന്നു